കഴിഞ്ഞ പ്രഭാഷണത്തിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് മാച്ചിങ്ന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമ്മളുടെ ലോ ഫ്രീക്വൻസി നെറ്റ്വർക്ക് പരിജ്ഞാനം കൊണ്ട് ലംപ്ഡ് എലമെന്റുകളുമായി നമുക്ക് പരിചിതമായ ഒരു ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് പഠിക്കാൻ ശ്രമിക്കും അതിനാൽ ചില ഫ്രീക്വൻസികൾ വരെ സാധാരണയായി 1 ഗിഗാ ഹെർട്സ് വരെ ലംപ്ഡ് എലമെന്റുകൾ രൂപകല്പന ചെയ്യാൻ ഉപയോഗിക്കാം എന്നാൽ നമ്മൾ ഉയർന്ന ഫ്രീക്വൻസികളിൽ പോകുകയാണെങ്കിൽ അതായത് നമ്മൾ ഫ്രീക്വൻസിയിൽ ഉയർന്ന് പോയാൽ ഒരു ഇൻഡക്റ്റർ പോലെ ഈ ലംപ്ഡ് എലമെന്റുകളുടെ സ്വഭാവം ഇതേ എലമെന്റുകളെ തന്നെ മാറ്റാൻ തുടങ്ങുന്നു കൂടാതെ ഇൻഡക്ടറിന് ചില സ്ട്രേ കപ്പാസിറ്റൻസുകളും മറ്റ് കാര്യങ്ങളും ഉണ്ട് അതിനാൽ നമ്മളുടെ ലാബുകളിലേത് പോലെ അതിന്റെ സ്വഭാവം ചിലപ്പോൾ കുറച്ച് ഇൻഡക്റ്റീവ് അല്ലങ്കിൽ പൂർണ്ണമായും കപ്പാസിറ്റീവ് ആയി മാറിയേക്കാം നമ്മൾ ലംപ്ഡ് എലമെന്റുകളൾ വെച്ച് എക്സ്പീരിമെന്റ് ചെയ്യുമ്പോൾ സോഴ്സിന്റെ ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ കമ്പോണെന്റ് കപ്പാസിറ്റീവ് ആയി മാറുന്നു ചിലപ്പോൾ അത് ഒട്ടും റെസിസ്റ്റീവ് ആയിരിക്കില്ല റെസിസ്റ്റർ പോലെ ഒന്ന് ഇത് പോലെ തന്നെ ആണ് കപ്പാസിറ്റർ മുതലായവയും അതിനാൽ ഉയർന്ന ഫ്രീക്വൻസികളിൽ നിങ്ങൾക്ക് ഈ ലംപ്ഡ് എലമെന്റുകളെ ആശ്രയിക്കാൻ കഴിയില്ല ആ സമയത്ത് നിങ്ങൾക്ക് എൽ സി മുതലായവയുടെ ഇഫക്റ്റുകൾ ലഭിക്കാൻ ഡിസ്ട്രിബൂട്ടീവ് സർക്യൂട്ട് ആവശ്യമാണ് അത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കാണാം അതിനാൽ ഇത് ലംപ്ഡ് എലമെന്റ് അടിസ്ഥാനമാക്കിയുള്ള ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഡിസൈനാണ് കോഞ്ചുഗേറ്റ് മാച്ചിങ്ങിന്റെ പല പ്രായോഗിക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് സോഴ്സും ലോഡും തമ്മിൽ കോഞ്ചുഗേറ്റ് മാച്ചിങ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇംപെഡൻസ് മാച്ചിങ്ങിന് അനുയോജ്യമാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ ഈ γ S അതായത് സോഴ്സ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് 0 ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് γ L 0 എന്നിവ സോഴ്സും ലോഡ് ഇംപെഡൻസും പരസ്പരം കോഞ്ചുഗേറ്റ് ആവുമ്പോൾ കിട്ടുന്നത് എല്ലായ്പ്പോഴും ഡിസൈനർമാരുടെ കൈയിലല്ല അതിനാൽ ഒരു ഡിസൈനർ അല്ലെങ്കിൽ മൈക്രോവേവ് എഞ്ചിനീയർക്ക് തന്നിരിക്കുന്ന ഒരു ലോഡും സോഴ്സും കൊണ്ട് അത് ചെയ്യാൻ കഴിയണം എന്നാൽ എല്ലായ്പ്പോഴും അയാൾക്ക് ഒരു നെറ്റ്വർക്ക് ഇതിൽ ചേർക്കാൻ കഴിയും അതിനെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ആ നെറ്റ്വർക്ക് ഇംപെഡൻസ് മാച്ചിംഗ് ജോലി ചെയ്യുന്നു അതിനെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിൽ നിങ്ങൾ അത് കാണുന്നു ഒരു ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന്റെ ഒരു ഔട്ട്പുട്ട് ഇംപെഡൻസും ഉണ്ട് ഇപ്പോൾ ഇത് രണ്ടും അവൻ കോഞ്ചുഗേറ്റ് മാച്ചിങ് ചെയ്യാൻ ശ്രമിക്കണം അതിനാൽ സോഴ്സ് ഇംപെഡൻസും ഇൻപുട്ട് ഇംപെഡൻസും അവ ഔട്ട്പുട്ട് വശത്തെ ലോഡ് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസുമായി കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കണം അവ ലോഡിനും ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിനും ഇടയിൽ കോഞ്ചുഗേറ്റുമായി ബന്ധപ്പെട്ടിരിക്കണം നിങ്ങൾക്ക് സോഴ്സും ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഇൻപുട്ടും തമ്മിൽ മാച്ചിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതിനാൽ ഈ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഡിസൈൻ ലംപ്ഡ് എലമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ പഠിക്കും ഉപ കാര്യം എന്തെന്നാൽ പഴയ സോഴ്സ് ഇപ്പോൾ പുതിയ സോഴ്സ് ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു പഴയ സോഴ്സ് ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിലേക്കും പഴയ ലോഡ് നെറ്റ്വർക്കിലേക്കും നോക്കുന്നു എന്നാൽ ഈ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിന്റെ ഈ സോഴ്സ് ഇംപെഡൻസും ഇൻപുട്ട് ഇംപെഡൻസും നമ്മൾ ഇതിനകം കോഞ്ചുഗേറ്റ് ചെയ്തതിനാൽ അവിടെ നമുക്ക് ആ പദപ്രയോഗം ഉപയോഗിക്കാം P¿ എന്നത് ഇപ്പോൾ മുൻ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടെത്തിയ കോഞ്ചുഗേറ്റ് മാച്ച് കേസിൽ ഒരു ലോഡ് ഇംപെഡൻസിന്റെ റെസിസ്റ്റീവ് ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന പവർ എന്നത് Vₛ²4 RL ആണ് ആ സമയം ഇവിടെ ഇൻപുട്ട് ഭാഗത്ത് ഈ ആദ്യ സബ് ഇംപെഡൻസ് മാച്ചിംഗ് ലൂപ്പ് നമുക്ക് P¿ എന്നത് Vₛ² 4 R¿ ന് തുല്യമാണെന്ന് നൽകും അതിനാൽ സോഴ്സിന്റെ റെസിസ്റ്റീവ് ഭാഗത്ത് എന്ത് പവർ ഉണ്ടോ അതേ പവർ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിൽ നിങ്ങൾക്ക് നൽകാനാകുന്ന പവർ തന്നെയാണെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഈ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ സബ് ഇംപെഡൻസ് മാച്ചിംഗ് ലൂപ്പാണിത് ഇതിന് പ്രത്യേകത ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ സോഴ്സ് സൈഡിലെ മൂന്നാമത്തെ സബ് ഇംപെഡൻസ് മാച്ചിംഗ് ലൂപ്പിന് എന്ത് സംഭവിക്കും അത് നിങ്ങൾക്ക് കാണാം PRₛ PinPoutPRL 12Ps അതിനാൽ സോഴ്സുകളുടെ മൊത്തം പവറിന്റെ പകുതിയും ലോഡിലേക്ക് എത്തിക്കുന്നു അതിനാൽ നേരിട്ടുള്ള കോഞ്ചുഗേറ്റ് മാച്ചിങ്ങിന്റെ അതേ അവസ്ഥയാണിത് അതിനാൽ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന്റെ ഈ ആമുഖത്തിലൂടെ സോഴ്സ് പവറിന്റെ പകുതി നിങ്ങൾ നേടിയെടുക്കുന്നു സോഴ്സ് പവർ എന്നാൽ സോഴ്സ് റെസിസ്റ്റന്റിൽ ഉള്ളതിന്റെ പകുതിയും ലോഡ് റെസിസ്റ്റന്റിൽ ഉള്ളതിന്റെ പകുതിയും ഇവിടെ കൈവരിക്കുന്നു ഇപ്പോൾ ഈ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് IMN അവ പാസ്സീവോ ആക്റ്റീവോ ആയ ഘടകങ്ങളിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ നല്ല ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഉണ്ട് ട്രാൻസിസ്റ്റർ അടിസ്ഥാനമാക്കിയുള്ള എമിറ്റർ ഫോളോവർ സോഴ്സ് ഫോളോവർ ബഫർ പോലുള്ള ആക്റ്റീവ് ഘടകങ്ങൾ ഉപയോഗിച്ച് അവ ചെയ്യാൻ കഴിയും അവിടെ ആക്റ്റീവ് ഘടകങ്ങൾ ബിറ്റുകൾ IFM ആണ് ഇപ്പോൾ ആക്റ്റീവ് ആയ IFM S ന്റെ പ്രശ്നം എന്തെന്നാൽ വ്യക്തമായും ഏത് ആക്റ്റീവ് ഉപകരണത്തിനും സ്റ്റേറ്റുകളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നു അതായത് ഇലക്ട്രോണിക് സ്റ്റേറ്റുകളിൽ അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള നോയ്സ് വർദ്ധിക്കുന്നത് അതിനാൽ ഏത് ആക്റ്റീവ് ഉപകരണവും പാസ്സീവ് ഉപകരണങ്ങളേക്കാൾ വളരെ ചെലവേറിയതാണ് അതിനാൽ ചെലവ് വർദ്ധിക്കുന്നു ഇത് വളരെ വ്യക്തമായ കാര്യം ആണ് പല പ്രാവശ്യവും അതിന് നോൺ ലീനിയറിറ്റി ഉണ്ട് അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ആക്റ്റീവ് ആയ ഉപകരണങ്ങളുടെ കാര്യത്തിൽ കറന്റ് ഡ്രെയിനേജ് വർദ്ധിക്കുന്നു കാരണം ഈ ആക്റ്റീവ് ഉപകരണങ്ങൾ ധാരാളം ബേസ് കറന്റ് വലിക്കുന്നു അതിനാൽ പാസ്സീവ് IMN ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യം നടത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ പ്രയോജനകരമാണ് അതിനാൽ പാസ്സീവ് IMN നിങ്ങൾക്ക് RL C ഉപയോഗിച്ച് നിർമ്മിക്കാം പക്ഷേ കുറച്ച് പവർ ഡിസ്സിപേഷൻ ഉള്ളതിനാൽ റെസിസ്റ്റർ സാധാരണയായി വീണ്ടും ഉപയോഗിക്കില്ല അതിനാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് റെസിസ്റ്റർ കുറച്ച് നോയ്സി ഉപകരണം കൂടിയാണ് അതിനാൽ പാസ്സീവ് ഇന്റഗ്രേറ്റഡ് മാച്ചിംഗ് നെറ്റ്വർക്കുകൾക്ക് സാധാരണയായി റെസിസ്റ്റർ ഉപയോഗിക്കാറില്ല അതിനാൽ പ്രധാനമായും പാസ്സീവായ IMN എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് L അല്ലെങ്കിൽ C എന്നിവ ചേർന്ന LC നെറ്റ്വർക്കുകളെയാണ് ഇപ്പോൾ L ഉം C ഉം ഐഡിയൽ ആണെങ്കിൽ ഒരു ഫ്രീക്വൻസി വരെ ഈ അനുമാനം ശെരിയാണ് ഒരു നിശ്ചിത ഫ്രീക്വൻസിക്ക് ശേഷം നിങ്ങൾക്ക് അവയെ ഐഡിയൽ കാര്യമായി വിളിക്കാൻ കഴിയില്ല എന്നാൽ ഫ്രീക്വൻസി പരിധിക്കുള്ളിൽ അതായത് സാധാരണയായി 1 ഗിഗാ ഹെർട്സ് വരെ നിങ്ങൾക്ക് ഇത് പറയാം LC അവ റിയാക്റ്റീവ് എലമെന്റ്സ് ആണ് അതിനാൽ ഒരു പവർ അവിടെ ഡിസിപ്പേഷൻ ചെയ്യുന്നില്ല അതിനാൽ P¿ ഉം Pout ഉം അവർക്ക് ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിൽ നിങ്ങൾ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന് ഇൻപുട്ട് പവറായി നൽകുന്നതെന്തും ലഭിക്കുന്നത് അത് LC അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ ഈ പാസ്സീവ് കാര്യത്തിൽ നിങ്ങൾക്ക് ഇതേ പവർ പുറത്തെടുക്കാൻ കഴിയും എൽ സി എന്നിവയിൽ ഡിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ അതേ സമയം നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ വേണമെങ്കിൽ ട്രാൻസിസ്റ്റർ കാരണം 1 ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന് പകരം 2 ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കാം അതായത് ട്രാൻസിസ്റ്ററിലെ ഇൻപുട്ടും ഔട്ട്പുട്ട്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് 1 സിംഗിൾ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന് എല്ലായ്പ്പോഴും മുഴുവൻ ഇംപെഡൻസും അവിടെ മാച്ച് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കപ്ലിങ് കാരണം ഒന്നുകിൽ ഇത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നതിൽ 1 കോമൺ ആണ് അതിനാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു കപ്ലിംഗ് ഉണ്ട് അതുകൊണ്ടുതന്നെയാണ് നിങ്ങൾക്ക് മാച്ചിങ് നെറ്റ്വർക്കിന്റെ അധിക തലം ആവശ്യമായി വരുന്നത് ഇത് സാധാരണയായി ഏത് 2 മാച്ചിങ് നെറ്റ്വർക്കിലും വരുന്നു എന്നാൽ നമ്മൾ ഈ പ്രഭാഷണങ്ങളിൽ ഇവയെക്കുറിച്ച് സംസാരിക്കില്ല ഇതൊരു മൈക്രോവേവ് ആംപ്ലിഫയറിന്റെ ഡിസൈനറാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണം അത് ടച്ച് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മോഡാണ് ഇപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുകയാണെന്ന് കരുതുക ഇപ്പോൾ എൽസി ബേസ് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എൽ സി എന്നിവ ഇംപെഡൻസുകളാണ് അവ ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്നു വാസ്തവത്തിൽ അവയ്ക്ക് ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്ന റിയാക്റ്റൻസ് ഉണ്ട് അതിനാൽ ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്ന മാച്ചിങ് നെറ്റ്വർക്കിന്റെ ഇംപെഡൻസ് നമുക്ക് പറയാൻ സാധിക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് ഈ മാച്ചിങ് കൈവരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു സിഗ്നൽ നൽകുകയാണെങ്കിൽ വിവിധ ഫ്രീക്വൻസി സിഗ്നലുകൾ ഉൾക്കൊള്ളുന്ന നമ്മളുടെ അടിസ്ഥാന ബാൻഡ് സിഗ്നലുകളുടെ ഏതെങ്കിലും സിഗ്നൽ നിങ്ങൾ കാണുന്നു ഞാൻ സംസാരിക്കുമ്പോൾ വിവിധ സിനുസോയ്ഡൽ സിഗ്നലുകൾ വരുന്നത് പോലെ ഒരൊറ്റ ഫ്രീക്വൻസി ലഭിക്കുന്ന ഇത് വളരെ റിയാക്ടീവായ ഒന്നാണ് അതിനാൽ ഇത് സമീപത്തുള്ള വിവിധ ഫ്രീക്വൻസികളുടെ മിശ്രിതമാണ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് മാച്ച് ചെയ്തു എന്നാൽ സിഗ്നൽ എന്നത് ബിറ്റ് വൈഡർ ബാൻഡ് ഫ്രീക്വൻസികൾ അടങ്ങിയ ബിറ്റ് വൈഡ് ബാൻഡും ആണെങ്കിൽ ഇംപെഡൻസ് മാച്ച് ഹോൾഡിൽ എന്ത് സംഭവിക്കും ഈ ഡയഗ്രാമിൽ നിന്ന് സ്മിത്ത് ചാർട്ടിൽ നിങ്ങൾ ഇംപെഡൻസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തിയാലും ഇംപെഡൻസിൽ മാറില്ല എന്ന് നിങ്ങൾ കാണുന്നു ഇത് ഒരു പോയിന്റിൽ പാറ പോലെ ദൃഢമാണെങ്കിൽ അത് ഒരു നല്ല ഇംപെഡൻസ് മാച്ചിങ് ആണ് എന്നാൽ കർവിൽ കാണിക്കുന്നത് നമ്മൾ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തുമ്പോൾ ഇതിന്റെ ലോക്കസിലെ പോലെ ഇതിലും വേരിയേഷൻ വരുന്നു തീർച്ചയായും ആ ഇംപെഡൻസിന്റെ വ്യതിയാനം അധികമാവാൻ പാടില്ല കാരണം നമ്മുടെ ഉദ്ദേശ്യം നഷ്ടപ്പെട്ടു പോകും കാരണം ഈ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിൽ നിന്ന് പ്രത്യേക ഇംപെഡൻസ് നേടാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ എന്താണ് നാരോ ബാൻഡ് മാച്ചിങ് എന്നതുകൊണ്ട് നമ്മൾ നിർവ്വചിക്കുന്നത് നാരോ ബാൻഡ് ഇംപെഡൻസ് മാച്ചിങ് എന്നാൽ റിലേറ്റീവ് ബാൻഡ്വിഡ്ത്ത് ആണ് ഇത് മറ്റൊന്നുമല്ല നെറ്റ്വർക്കിന് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിക്ക് വിധേയമാക്കാൻ കഴിയുന്ന പരമാവധി ഫ്രീക്വൻസിയുള്ള ബാൻഡ് വിഡ്ത് ആണ് അതിനാൽ അതിനെ നാരോ ബാൻഡ് ഡിസൈൻ എന്ന് വിളിക്കുന്നു ഈ ആഴ്ചയിലെ പ്രഭാഷണത്തിന്റെ അവസാനം വൈഡ് ബാൻഡ് ഇംപെഡൻസ് മാച്ചിംഗ് ഡിസൈൻ നമ്മൾ കാണും അവിടെ കൂടുതൽ വൈഡായ ഫ്രീക്വൻസികൾ അതായത് വൈഡായ ബാൻഡ് ഫ്രീക്വൻസികൾ അടങ്ങിയ വൈഡായ സിഗ്നലുകൾ അവയും ആ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കുമായി എങ്ങനെ മാച്ച് ചെയ്യാനാകും എന്നും നമുക്ക് കാണാം ഇപ്പോൾ 1 കാര്യം നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് 0 ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലും എല്ലായ്പ്പോഴും റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഉണ്ടെന്ന് കരുതുക മുൻ പ്രഭാഷണങ്ങളിൽ കാണുന്നത് പോലെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് നഷ്ടപ്പെട്ടതിനാൽ ഞാൻ ഒരു നിശ്ചിത ലെവൽ വരെ റിട്ടേൺ ലോസ് ഉണ്ടാക്കും അതിനാൽ പവർ നഷ്ടം ഇത്രയായിരിക്കും അങ്ങനെയെങ്കിൽ ഈ കേസിൽ അത് സഹിക്കാവുന്നതേയുള്ളൂവെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന പരമാവധി ലോഡ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം അതായത് റിട്ടേൺ ലോസ് ഇങ്ങനെയാണ് dB സ്കെയിലിൽ നിർവചിച്ചിരിക്കുന്നത് 10 log|Γ|2 അതിനാൽ നമ്മൾക്ക് അത് പ്ലോട്ട് ചെയ്യാം കാരണം നിങ്ങൾക്ക് റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ സ്മിത്ത് ചാർട്ടിൽ അത് Γu jv ആണ് അതിനാൽ പവർ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് γ Γ യും കൂടാതെ Γ¿u2 v2 ആയിരിക്കും ഇതാണ് കോയെഫിഷ്യന്റ് ചാർട്ട് അതിനാൽ u2v2 എന്നത് 0 ൽ സെന്ററും ഗാമാ മാഗ്നിറ്റ്യൂഡ് നൽകുന്ന റേഡിയസ് ഉള്ളതുമായ സർക്കിളുകളുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കും അതിനാൽ നിങ്ങൾക്ക് വിവിധ റിട്ടേൺ ലോസ്സസിന്റെ വിവിധ സർക്കിളുകൾ പ്ലോട്ട് ചെയ്യാനും നിങ്ങളുടെ ഇംപെഡൻസ് പോയിന്റുകൾ ആ സർക്കിളിനുള്ളിലാണോ എന്ന് നോക്കാനും കഴിയും ഇപ്പോൾ അവ ആ സർക്കിളിനുള്ളിൽ ആണെങ്കിൽ റിട്ടേൺ ലോസ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മുമ്പത്തെതിലെ പോലെ റിട്ടേൺ ലോസ് ശെരിക്കും ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അത് എപ്പോഴും കാണാൻ കഴിയും ഫ്രീക്വൻസി ഇതുപോലെ വ്യത്യാസപ്പെടാം പക്ഷേ റിട്ടേൺ ലോസ് ഇതിൽ കൂടുതൽ വ്യത്യാസപെടാൻ പാടില്ല എന്നൊരു നിബന്ധന എനിക്കുണ്ടെന്ന് കരുതുക അപ്പോൾ നമ്മൾ ഈ കർവ് ഉപയോഗിക്കുക ആണെങ്കിൽ നമ്മൾ ആ റിട്ടേൺ ലോസ് നൽകിയിരിക്കുന്ന സർക്കിളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം റിട്ടേൺ നഷ്ടം അനുഭവിക്കാമെന്ന് നിങ്ങൾക്ക് കാണാനാകും അതിൽ നിന്ന് ഈ ഡിസൈൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാനാകും അതിനാൽ ഇതിനെ റിട്ടേൺ ലോസ് ലിമിറ്റേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ റിട്ടേൺ ലോസ് ക്രമീകരണം വഴിയുള്ള ഇംപെഡൻസ് മാച്ചിങ് ആദ്യം സ്വീകാര്യമായ RL ലെവൽ കണ്ടെത്തുക അത് റിയൽ ആക്സിസിനെ 2 പോയിന്റിൽ ആയി മുറിക്കുന്ന സർക്കിൾ വരയ്ക്കുക അതിനാൽ എക്സ്ട്രീം പോയിന്റുകളിലെ ആ 2 റെസിസ്റ്റൻസിനപ്പുറം നിങ്ങൾക്ക് പോകേണ്ടതില്ല ഇപ്പോൾ ഏതെങ്കിലും ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിന്റെ റിട്ടേൺ ലോസ് എത്രയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിക്കാം ഈ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ പിന്നീട് നെറ്റ്വർക്ക് അനലൈസർ പഠിക്കും അതിനാൽ നെറ്റ്വർക്ക് അനലൈസറിൽ നിങ്ങൾക്ക് ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് പോർട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് കണക്റ്റുചെയ്യാനാകും കൂടാതെ വിവിധ സ്കാറ്ററിംഗ് പാരാമീറ്ററുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് നമ്മൾ പിന്നീട് പഠിക്കും ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ നെറ്റ്വർക്ക് അനലൈസറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് പഠിക്കാൻ കഴിയും 1 ആം എന്നാൽ അർത്ഥം സാധാരണയായി ഒരു സീരീസ് എലമെന്റ് എന്നാണ് അതിനാൽ അത് ഇൻഡക്റ്റർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ആകാം അതിനാൽ ആം എന്നാൽ സീരീസ് ആം ബ്രാഞ്ച് എന്നാൽ പാരലൽ ബ്രാഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അതും എൽ സി എന്നിവയാകാം അതിനർത്ഥം നിങ്ങൾക്ക് ഒരു ഇൻഡക്റ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ സീരീസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ ബ്രാഞ്ച് എന്നിങ്ങനെയുള്ള വിവിധ കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കാം ഇനി IMN നിർമ്മിച്ചിരിക്കുന്നത് സീരീസ് ലെ 1 ഭാഗമാണെന്ന് പറയാം അതിനാൽ അങ്ങനെയെങ്കിൽ Z0 മുമ്പത്തെ ഇംപെഡൻസ് ആണെന്ന് കരുതുക അതിലേക്ക് നിങ്ങൾ 1 ഭാഗം ചേർക്കുന്നു അതിനാൽ Z പുതിയ വേവ് ആയി മാറുന്നു അത് സീരീസ് ആണെങ്കിൽ അധിക Δ Z ന് ആ അധിക ആം നൽകുന്നു അതിനാൽ L C എന്നിവയ്ക്ക് Δ R0 അതിനാൽ നിങ്ങൾ Δ Z എന്ന് ചേർക്കുന്നു ഇപ്പോൾ L അല്ലെങ്കിൽ C സീരിസിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതുപോലെ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ ഇൻഡക്ടൻസിനായി ഇത് ലിനീയർ ആയി വ്യത്യാസപ്പെടുന്നു കപ്പാസിറ്റൻസ് ലിനീയർ ആയി വ്യത്യാസപ്പെടുന്നില്ല ഇത് ഒരു ഹൈപ്പർബോള തരം വ്യതിയാനമാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾക്കറിയാവുന്നതാണ് അതിനാൽ സ്മിത്ത് ചാർട്ടിൽ അത് എങ്ങനെയാണ് വ്യത്യാസപെടുക കഴിഞ്ഞ ദിവസം കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടു അതിനാൽ P എന്നത് ഒരു പോയിന്റാണെന്ന് കരുതുക ഇപ്പോൾ ഈ പോയിന്റ് P ഞാൻ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിൽ ചേരുന്നതിന് മുമ്പോ സീരീസ് ആമിൽ ചേരുന്നതിന് മുമ്പോ ആണെന്ന് കരുതുക ഇപ്പോൾ ഞാൻ ഒരു സീരീസ് ചേർക്കുന്നു അതിനാൽ ആ സ്മിത്ത് ചാർട്ടിൽ നിന്ന് അടിസ്ഥാനപരമായി ഞാൻ ഒരു കോൺസ്റ്റന്റ് റെസിസ്റ്റന്റ് സർക്കിളിൽ ക്ലോക്കവൈസ് ദിശയിൽ നീങ്ങും മറുവശത്ത് സീരീസ് ആം ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ ചലിക്കും അതിനാൽ അത് CS ദിശ കാണിക്കുന്നു അതിനാൽ സീരീസ് ആം ഒരു എൽ ക്ലോക്ക് വൈസ് ദിശയിൽ നീങ്ങുന്നു ഒരു സി ആമിന് ആന്റി ക്ലോക്ക് വൈസ് ദിശയിലും ആക്കുന്നു ഇപ്പോൾ സമാനമായി ബ്രാഞ്ച് പാരലൽ ആയെക്കാം അങ്ങനെയെങ്കിൽ പുതിയ അഡ്മിറ്റൻസ് എന്നത് പഴയ അഡ്മിറ്റൻസ് പ്ലസ് ΔY ആയിരിക്കും L C എന്നിവയ്ക്ക് കണ്ടക്റ്റൻസ് മാറ്റം 0 ആയിരിക്കും അതിനാൽ ഇത് ബ്രാഞ്ച്സിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇതും നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്മിത്ത് ചാർട്ടിൽ P എന്ന പോയിന്റിൽ നിന്ന് എനിക്ക് ഇൻഡക്റ്റൻസിന്റെ പാരലൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇതിനർത്ഥം ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് പോകുന്നത് എന്നാണ് അതേസമയം പാരലൽ ബ്രാഞ്ചിലെ ഒരു സിപി പാരലൽ കപ്പാസിറ്ററിന് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് വരുന്നത് അതിനർത്ഥം ഞാൻ മുൻപ് 2 ചിത്രങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന പോയിന്റ് P ഈ പോയിന്റ് ആണ് അതിനാൽ അവിടെ ഒരു ഇംപെഡൻസ് ഉണ്ട് ഇപ്പോൾ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഒന്നുങ്കിൽ ഒരു R അല്ലെങ്കിൽ L അല്ലെങ്കിൽ C അവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നു അതിനാൽ ഇത് ഒരൊറ്റ എലമെന്റ് L ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് CS ആണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് അതിനാൽ നിങ്ങൾ ഇവിടെ വിവിധ പൂൾ ദിശകൾ കാണുന്നു ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ 1 പോയിന്റ് പോയിന്റ് P മുതൽ റിട്ടേൺ ലോസ് സ്വീകാര്യമല്ലെന്ന് കരുതുക ഞാൻ റിട്ടേൺ ലോസ് സർക്കിളിന്റെ അടുത്ത് വരാനോ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിന്റെ സഹായത്തോടെ എന്നെ വിവിധ ഇംപെഡൻസുകളിലേക്ക് വലിച്ചിടാൻ കഴിയും അതായത് ഈ ഡയഗ്രം നിങ്ങളെ എന്താണ് ചേർക്കണ്ടത് എന്ന് അറിയുന്നതിന് സഹായിക്കും 1 ഒരു LC അല്ലെങ്കിൽ RP ചേർക്കണോ എന്ന് നിങ്ങൾക്ക് വിവിധ ചോയ്സുകൾ ഉണ്ട് എന്നാൽ അത് എവിടേക്കാണ് വലിക്കുക എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ അത് സ്വീകാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ കാണുന്നു വ്യക്തമായും നിങ്ങൾക്ക് വലിച്ചു ചാർട്ടിന്റെ മധ്യഭാഗത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഒരു സ്മിത്ത് ചാർട്ടിന്റെ മധ്യഭാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവയുടെ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് പൂജ്യമാണ് എന്നതിനാൽ അവിടെ റിഫ്ലക്ഷൻ കോഞ്ചുഗേറ്റ് മാച്ച് കേസിന്റെ മാച്ചിങ് ആണ് അത് അതിനാൽ ഈ പുള്ള് ചെയുന്നതിലൂടെ നിങ്ങൾക്ക് 1 ഭാഗത്തു നിന്ന് മറ്റൊന്നിലേക്ക് വരാം ഇപ്പോൾ ഒരൊറ്റ ഭാഗമുള്ള ഈ ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് അത് പ്രശ്നകരമാണ് കാരണം 1 ദിശയിൽ ഒരൊറ്റ എലമെന്റ്റിലൂടെ നിങ്ങൾക്ക് പൂൾ ചെയ്യാൻ കഴിയുന്നതിനാൽ ഇംപെഡൻസ് മധ്യഭാഗത്തേക്ക് വലിക്കാനുള്ള ചെറിയ സാധ്യത ആണ് ഉള്ളത് യഥാർത്ഥ ഇംപെഡൻസ് R ൽ 1 ന് തുല്യമായിരിക്കണം അല്ലെങ്കിൽ G 1 സർക്കിളിന് തുല്യമായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവയുമായി ഒരു പൂർണ്ണമായ കോഞ്ചുഗേറ്റ് മാച്ച് ചെയ്യാൻ കഴിയൂ ഒറിജിനൽ ഇംപെഡൻസ് കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ്കോൺസ്റ്റന്റ് resistant കോൺസ്റ്റന്റ് റിയാക്ടന്റ് സർക്കിളിൽ ഇല്ലെങ്കിൽ തുടർന്ന് ഒരൊറ്റ എലമെന്റ് കൊണ്ട് ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മൾ 1 ഭാഗം ഉപയോഗിക്കുന്നതിന് പകരം 2 ഭാഗം ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാൽ ഇതെല്ലാം തന്നെ മാറിമറിയും യഥാർത്ഥത്തിൽ l ആണ് എന്നാൽ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ EL എന്നും വിളിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഒരു EL വിഭാഗത്തിൽ നിങ്ങൾക്ക് 1 ആം 1 ബ്രാഞ്ച് ഉണ്ട് അതായത് 1 സീരീസ് എലമെന്റ് 1 പാരലൽ എലമെന്റ് ഇപ്പോൾ എൽ വിഭാഗത്തിന്റെ അത്തരം 8 സാധ്യതകൾ ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ വലത് വശമെല്ലാം ലോഡ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഒന്നുകിൽ സീരീസ് c സീരീസും പാരലലും ഉണ്ട് അതായത് ആമും ബ്രാഞ്ചും C ആണ് രണ്ടും L ആണ് ആദ്യത്തേത് l രണ്ടാമത്തേത് L അല്ലെങ്കിൽ അതിന്റെ വിവിധ കോമ്പിനേഷനുകൾ ഞാൻ ഇവിടെ കണ്ടതുപോലെ എട്ട് കോമ്പിനേഷനുകൾ ഉണ്ടാകും അതിനാൽ 8 എൽ സെക്ഷൻ മാച്ചിംഗ് നെറ്റ്വർക്കുകൾ സാധ്യമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് 1 ഏത് ഘട്ടത്തിൽ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാം യഥാർത്ഥത്തിൽ സ്മിത്ത് ചാർട്ട് നാല് മേഖലകളായി തിരിച്ചിരിക്കുന്നു ആ ഭാഗങ്ങൾ എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് കാണാനാകും ഇപ്പോൾ ഭാഗം 1 നെ എടുക്കുക അഡ്മിറ്റൻസ് ചാർട്ടിൽ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ നമ്മൾ 1 പ്ലസ് jb എന്ന് വിളിക്കുന്നതിനെ സർക്കിൾ ചെയുക അതായത് സ്മിത്ത് ചാർട്ടിന്റെ ഇടത് ഭാഗം 1 പെരിഫെറി ആയ സെന്ററിലൂടെയും സ്മിത്ത് ചാർട്ടിന്റെ ഇടത് അറ്റം 1 പെരിഫെറിയി ലൂടെയും തുടർന്ന് നിങ്ങൾ ആ സർക്കിൾ വരച്ചാൽ അത് 1 ലൂടെയും കടന്നുപോകുന്നു ഉടൻ തന്നെ റീജിയൻ 2 വ്യത്യാസപ്പെടുത്തുന്നു അത് പൊതുവെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിലെ 1 പ്ലസ് jb സർക്കിൾ ആണ് അതുപോലെ 3 ഉം 4 ഉം അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇംപഡൻസ് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനാൽ നിങ്ങളുടേത് യഥാർത്ഥ ഇംപെഡൻസ് റീജിയൻ 1 ൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ 1 സ്ട്രാറ്റജി എടുക്കേണ്ടിവരും തുടർന്ന് റീജിയൻ 2 റീജിയൻ 3 റീജിയൻ 4 അതിനാൽ നിങ്ങളുടെ ആദ്യ ഇംപെഡൻസ് ഏത് പോയിന്റിൽ ആണ് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ആ 8 ൽ 1 തിരഞ്ഞെടുക്കാം അതിനാൽ സ്മിത്ത് ചാർട്ടിൽ നാല് റീജിയൻനുകൾ നമ്മൾ കണ്ടു റീജിയൻ 1 റീജിയൻ 2 ഈ റീജിയൻ 1 ൽ നമ്മൾ പറഞ്ഞതെന്തും അടിസ്ഥാനപരമായി നമുക്ക് R എന്നത് 1 R ൽ കുറവാണെന്ന് അർത്ഥമാക്കുന്നത് R x എന്നത് X ആണ് അതിനാൽ അതാണ് കുറഞ്ഞ റെസിസ്റ്റൻസ് ഭാഗം റീജിയൻ 2 ഉയർന്ന റെസിസ്റ്റൻസുള്ള ഭാഗവും റീജിയൻ മൂന്ന് താഴ്ന്ന റെസിസ്റ്റൻസും അതുപോലെ താഴ്ന്ന കണ്ടക്റ്റൻസും ഉള്ള ഭാഗവുമാണ് റീജിയൻ നാല് താഴ്ന്ന റെസിസ്റ്റൻസും താഴ്ന്ന കണ്ടക്റ്റൻസുമാണ് അതിനാൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നാല് റീജിയൻ ഇപ്പോൾ ഇത് അതായത് റീജിയൻ 1 ഞാൻ റീജിയൻ 1 ൽ ആണെങ്കിൽ ഇത് റീജിയൻ 1 പി 1 ആയതിനാൽ വീണ്ടും പി യെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നു അതിനർത്ഥം ഒറിജിനൽ ഇംപെഡൻസ് ഇപ്പോൾ ഇവിടെയുണ്ട് ഒടുവിൽ ഞാൻ ഈ സെന്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ അത് P 1 ൽ നിന്ന് ചെയ്യുന്നതായി നിങ്ങൾ വീണ്ടും കാണുന്നു ഒരു എലമെന്റ് കൊണ്ട് എന്നെ പല തരത്തിൽ വലിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അതിനാൽ എന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് വലിച്ചിടും ഞാൻ ആ 1 പ്ലസ് jb ആ സർക്കിൾ സ്പർശിക്കും 1 ഈ കോൺസ്റ്റന്റ് 1 സർക്കിൾ റിഫ്ലക്ട് ചെയ്യുന്നു അവിടെ നിന്ന് ഞാൻ സെന്റർലേക്ക് വരാം അല്ലെങ്കിൽ അതിനുപകരം എനിക്ക് ഇവിടെ നിന്ന് ഇത് വരെ വരാൻ കഴിയും എന്നിട്ട് എന്നെ സെന്റർലേക്ക് വലിച്ചിടാൻ സാധിക്കും അതിനാൽ എനിക്ക് അത്തരം 2 ബദലുകൾ ഉണ്ട് ഇപ്പോൾ വീണ്ടും ആദ്യത്തെ ബദൽ നിങ്ങൾ ആ സിംഗിൾ പാർട്ട് കൊണ്ട് എങ്ങനെ വലിച്ചിടും അതിനാൽ എനിക്ക് സിംഗിൾ പാർട്ട് വേണമെങ്കിൽ എനിക്ക് ക്ലോക്ക് വൈസ് പുള്ളിങ് വേണമെങ്കിൽ എനിക്ക് സീരീസ് ആം ഒരു LC ഉണ്ടായിരിക്കണം തുടർന്ന് പാരലൽ ബ്രാഞ്ചിൽ ക്ലോക്ക് വൈസിൽ പുള്ളിങ് ചെയ്യണമെങ്കിൽ അത് ഒരു CP ആണ് അതിനാൽ വലത് ഭാഗത്തുള്ള ആദ്യത്തെ സർക്യൂട്ട് LS CP ആണ് എന്റെ ചോയിസ് അല്ലെങ്കിൽ രണ്ടാമത്തെത് അതിനർത്ഥം എന്നെ ഇങ്ങനെ വലിച്ചിടേണ്ടി വരും എന്നാണ് അതിനാൽ എനിക്ക് ഈ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് പുള്ളിങ് വേണമെങ്കിൽ CS സീരീസ് ഭാഗത്തിലും 1 പാരലൽ LP യും എനിക്ക് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ 1 ആണ് എന്റെ ചോയ്സ് ഇപ്പോൾ നിങ്ങൾ ഏത് 1 തിരഞ്ഞെടുക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും പൊതുവെ ഈ രണ്ടിന്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് വ്യത്യസ്തമാണെന്ന് നമ്മൾ കാണും അതിനാൽ അതിൽ നിന്ന് നിങ്ങൾ റഫറൻസ് പ്ലോട്ട് ചെയ്യുകയും പൊതുവെ 1 റൂൾ ഓഫ് തമ്പ് ഉപയോഗിച്ച് L C എന്നിവയുടെ താഴ്ന്ന മൂല്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് കാണാൻ ശ്രമിക്കുക അതായത് ഡിസ്ക് നിങ്ങൾ വലിക്കുമ്പോൾ അധികം വലിയില്ല അതിനാൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ പാത അതാണ് റൂൾ ഓഫ് തമ്പ് പക്ഷേ എല്ലായ്പ്പോഴും അത് സാധുതയുള്ളതല്ല കൂടുതൽ അർത്ഥവത്തായത് എന്തെന്നാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാനും കൂടുതൽ നൽകുന്ന ഒന്ന് തിരഞ്ഞെടുത്ത് വൈഡായ ആയ ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ മികച്ചതായ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക യഥാർത്ഥത്തിൽ റീജിയൻ 2 ലും സമാന കാര്യതന്നെ നിങ്ങൾ ശെരിക്കും റീജിയൻ 2 ൽ ആണെങ്കിൽ അതായത് പോയിന്റ് P2 ൽ P2 ൽ നിന്ന് 2 തരത്തിൽ നിങ്ങളെ വലിച്ചെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് പോയിന്റ് D ലേക്ക് വരാം തുടർന്ന് D യിൽ നിന്ന് O ലേക്ക് അല്ലെങ്കിൽ P2 ൽ നിന്ന് നിങ്ങൾക്ക് C യിലേക്കും പിന്നീട് C നിന്ന് O യിലേക്കും പോവാം അതിനാൽ അവസാനം 1 വേ കാര്യത്തിന്റെ ഗ്രാഫ് നോക്കിക്കൊണ്ട് വീണ്ടും അതായത് ഈ 1 ഏത് 1 ആണ് നിങ്ങൾ പുള്ള് ചെയുന്നത് ഏത് എലമെന്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നെല്ലാം പറയാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു അതിൽ നിന്ന് ഏത് എലമെന്റാണ് തിരഞ്ഞെടുക്കേണ്ടത് റീജിയൻ 2 ന് നിങ്ങൾക്ക് ഈ 2 ചോയിസുകൾ ഉണ്ടെന്ന് ആളുകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് B യിലേക്കും പിന്നെ O യിലേക്കും പോകാം അതിനെ ആശ്രയിച്ച് 2 ചോയ്സ് മേഖല നാല് ചോയ്സുകൾ ഉണ്ട് അതിനാൽ ഈ എല്ലാ സ്റ്റെപ്പിലെയും പൊതുവായ സ്റ്റെപ് നിങ്ങൾ സംഗ്രഹിച്ചാൽ ആദ്യത്തെ സ്റ്റെപ് ഒറിജിനൽ ഇംപെഡൻസ് വലിക്കുക ഒന്നുകിൽ g എന്നത് 1 സർക്കിളിന് തുല്യമാണ് അല്ലെങ്കിൽ r എന്നത് 1 സർക്കിളിന് തുല്യമാണ് ഇത് നിങ്ങളുടെ സ്ഥാനത്തെ ആശ്രയിച്ച് ഉചിതമായിരിക്കും തുടർന്ന് കമ്പോണേന്റിലെ അടുത്ത ഭാഗം നിങ്ങൾ സെന്റർലേക്ക് പുള്ള് ചെയ്തിടും അതിനാൽ നിങ്ങളെ r എന്നതിലേക്ക് കൊണ്ടുവരുന്ന കമ്പോണേന്റിലെ ആദ്യ ഭാഗം 1 ന് തുല്യമാണ് അല്ലെങ്കിൽ g 1 സർക്കിളിന് തുല്യമാണ് രണ്ടാമത്തെ ഭാഗം നിങ്ങളെ സെന്റർലേക്ക് കൊണ്ടുവരുന്നു അതിനാൽ 1 ഭാഗം എല്ലായ്പ്പോഴും സീരീസ് ആയിരിക്കും മറ്റൊരു ഭാഗം പാരലൽ ആയിരിക്കും ആദ്യ ഭാഗം സീരീസാണോ പാരലൽ ആണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് അതിനാൽ ഈ ഡിസൈനുകളെല്ലാം നിങ്ങൾ കാണുന്നു അതായത് ആദ്യം കണക്റ്റുചെയ്ത 1 ലോഡ് ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ ചോയ്സ് ആയ സീരീസിലോ പാരലലിലോ ഉള്ളതാണ് ഈ രണ്ടിലും ഇവയെല്ലാം വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ ഏതൊക്കെ എലമെന്റുകൾ എന്നത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ യഥാർത്ഥ ഇംപെഡൻസ് ഭാഗം 1 അല്ലെങ്കിൽ ഭാഗം 2 ൽ ആണെങ്കിൽ അതിൽ 2 ഭാഗങ്ങളിൽ 1 L ഉം മറ്റൊന്ന് C ഉം ആയിരിക്കും എന്ന് നിങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ തലക്കെട്ട് നൽകിയിരിക്കുന്നത് LC അതിനാൽ ഒന്നും രണ്ടും മേഖലകൾക്ക് നിങ്ങളുടെ ചോയ്സ് ഉണ്ടായിരിക്കും രണ്ട് കമ്പോണെന്റുകളും LC ക്ക് എതിരാണ് നിങ്ങൾ മേഖല 3 ലാണെങ്കിൽ രണ്ട് ഭാഗങ്ങളും C ആണ് യഥാർത്ഥ ഇംപെഡൻസ് 4 ആണെങ്കിൽ രണ്ട് ഭാഗങ്ങളും ഇൻഡക്ടൻസുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് 8 സാധ്യമായ ടോപ്പോളജികൾ തീരുമാനിക്കാം കൂടാതെ അവ കാണുകയും ചെയാം മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ 2 1 വഴി നിങ്ങൾക്ക് ശരിയായ ഇംപെഡൻസ് മാച്ചിങ് ലഭിക്കുമെന്ന് ഉറപ്പില്ല അതിനർത്ഥം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സെന്റർലേക്ക് വരാൻ കഴിയും എന്നല്ല അതിനാൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിസ്റ്റ് ഇതാ അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യ കോളത്തിന്റെ റീജിയനിൽ ആണെങ്കിൽ രണ്ടാമത്തെ കോളം പറയുന്നത് നിങ്ങൾ ആ പ്രദേശങ്ങളിലാണെങ്കിൽ ആദ്യത്തെ കോളത്തിലെ ടോപ്പോളജി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് പുറത്തുവരാൻ സാധിക്കും എന്നാണ് എന്നാൽ മൂന്നാമത്തെ കോളം പറയുന്നത് നിങ്ങൾ ആ പ്രദേശത്താണെങ്കിൽ അനുബന്ധ ടോപ്പോളജി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവരാൻ കഴിയില്ല എന്നാണ് അവയെ പ്രോഹിബിറ്റഡ് പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ ആ ടോപ്പോളജി പ്രകാരം നിങ്ങൾ നിയന്ത്രണമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല കൂടാതെ മറ്റ് ചില പരിഗണനകൾ എന്തെന്നാൽ 7 8 ടോപ്പോളജിയിൽ അതായത് നിങ്ങൾ ഇവിടെ കാണുന്ന 7 ഉം 8 ഉം കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് കമ്പോണന്റ്സും ഇൻഡക്ടൻസാണെന്നാണ് ഇപ്പോൾ ഉയർന്ന ഫ്രീക്വൻസികളിൽ ഒരു ഇൻഡക്ടൻസ് നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ ഇൻഡക്ടൻസുകൾ കപ്പാസിറ്റൻസിനേക്കാൾ ചെലവേറിയതുമാണ് അതിനാൽ 7 ഉം 8 ഉം സാധാരണയായി ഇവ ചെലവേറിയതിനാൽ ആളുകൾ ഒഴിവാക്കുന്നു പിന്നെ ഡിസി ബ്ലോക്കിംഗ് ഡിസി ഷോർട്ട് സർക്യൂട്ട് ഡിസി ഫീഡിംഗ് ഇവയും മറ്റ് കാര്യങ്ങളാണ് കാരണം കപ്പാസിറ്ററുകൾ ചിലപ്പോൾ ഡിസി ബ്ലോക്കിംഗിന് ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങളുടെ പക്കൽ കപ്പാസിറ്ററുകൾ ഇല്ലെങ്കിൽ ഡിസി തടയുന്നത് പ്രശ്നമാകാം അതിനാൽ ഇപ്പോൾ പ്രോഹിബിറ്റഡ് റീജിയൻസ് 2 വിഭാഗങ്ങളുടെ പരിമിതികളാണ് ഏത് ടോപ്പോളജിയിലൂടെയും നിങ്ങൾക്ക് പുറത്തുവരാൻ കഴിയുമെന്ന് എല്ലായ്പ്പോഴും ഉറപ്പില്ല എന്നാൽ നിങ്ങൾ ശരിയായ ടോപ്പോളജി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾ പ്രോഹിബിറ്റഡ് റീജിയനിൽ ഉൾപ്പെടില്ല നിങ്ങൾക്ക് അവിടെ ചില ചോയ്സുകൾ ഉണ്ട് എന്നാൽ 2 ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു മാച്ച് ഉണ്ടാകാൻ കഴിയില്ല എന്നത് ഒരു പരിമിതിയാണ് അതിനാലാണ് മൂന്ന് ഭാഗങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ആണ് മികച്ചത് നമ്മൾ പട്ടികപ്പെടുത്തിയ സാധ്യമായ എല്ലാ ടോപ്പോളജികളും ഇവയാണ് നിങ്ങളുടെ റഫറൻസിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും അത് ഇവിടെ പരീക്ഷിക്കുകയാണെങ്കിൽ 3 എന്ന നമ്പറിലെ ടോപ്പോളജി പൈ ടൈപ്പിലും ടി ടൈപ്പിലും ടോപ്പോളജി നമ്പർ 3 എന്നിങ്ങനെയുള്ള ചില കേസുകൾക്ക് നിരോധിത മേഖലകളൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ യഥാർത്ഥ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ നിങ്ങൾ എവിടെയായിരുന്നാലും സാധ്യമായതെല്ലാം ഈ ടോപ്പോളജികളുമായി മാച്ച് ചെയ്യാനാകും അതിനാൽ ഈ പ്രഭാഷണത്തിൽ എൽ സെക്ഷൻ മാച്ചിംഗ് കാണാൻ നമ്മൾ ശ്രമിച്ചു അതായത് എൽസി നെറ്റ്വർക്കിലൂടെ ഇംപെഡൻസ് മാച്ചിങ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ കണ്ടു സോഴ്സന്റെയും ലോഡന്റെയും ഇംപെഡൻസുകൾ നിങ്ങളുടെ കൈയിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് സ്ഥാപിക്കാം പക്ഷേ അവയ്ക്കായി ഒരു കോഞ്ചുഗേറ്റ് മാച്ചിങ് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ LC നെറ്റ്വർക്ക് ചേർക്കേണ്ടതുണ്ട് അതിനാൽ ആ സോഴ്സ് ഒരു കോഞ്ചുഗേറ്റ് മാച്ചിങ് നെറ്റ്വർക്ക് കാണുന്നതായും കാണും അതുപോലെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് വികസിക്കുന്നതും എനിക്ക് കോഞ്ചുഗേറ്റ് സോഴ്സ് നൽകുന്നതും ലോഡിൽ കാണാം അതിനാൽ രണ്ട് പവർ ട്രാൻസ്ഫറും ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിനുള്ളിൽ ഉണ്ടാകാം ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്കിലൂടെ നേടിയെടുക്കുന്ന സോഴ്സിൽ നിന്ന് ലോഡിലേക്കുള്ള ഗതാഗതമാണ് നമ്മളുടെ ജോലി എന്നതിനാൽ അതിനെക്കുറിച്ച് നമ്മൾ കണക്കിലെടുക്കാത്ത റിഫ്ലക്ഷൻസും മറ്റ് കാര്യങ്ങളും ഉണ്ടാകാം അതിനാൽ ഈ മാച്ചിങ് നടത്താൻ പാസ്സീവ് കമ്പോണന്റ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് അടുത്ത പ്രഭാഷണത്തിൽ ഒരേ തരത്തിലുള്ള മാച്ചിങ് നടത്താൻ നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യുട്ടഡ് കമ്പോണന്റ്സ് ഉപയോഗിക്കാമെന്ന് നോക്കാം